എല്ലാവർക്കും സെൽ കൾച്ചർ ടെക്നോളജിയുടെ ക്ലാസുകളിലേക്ക് സ്വാഗതം ഇന്നു നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലെ അഞ്ചാമത്തെ ക്ലാസിലാണ് അതായത് ഇത് രണ്ടാമത്തെ ആഴ്ചയിലെ അഞ്ചാം ക്ലാസ് w 2 L 5 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ കോർണറിൽ ഒരു ലാമിനാർ ഫ്ലോ ഹുഡ് വെക്കുകയാണെങ്കിൽ അതിൻറെ സീറ്റിംഗ് ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയും ആവാം അപ്പോൾ ലാമിനാ ഫ്ലോ ഹൂഡിന്റെ ഡിസൈനിനു മുൻപ് ഒരു കാര്യം കൂടി തീരുമാനിക്കാൻ ഉണ്ട് അതായത് നമുക്ക് മൃഗങ്ങളെ അകത്തേക്ക് കൊണ്ടു പോകേണ്ടതുണ്ട് അതിനാൽ അതിനുവേണ്ട സൌകര്യങ്ങൾ ഒരുക്കണം മൃഗങ്ങളെ ബലി അർപ്പിക്കുക എന്നാൽ അവയെ കൊല്ലുക എന്നാണർത്ഥം ആ സാഹചര്യത്തിൽ ഉദാഹരണത്തിന് നിങ്ങൾ എലികളെയോ മറ്റുമാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിന് അനിമൽ എത്തിക്കൽ കമ്മിറ്റിയുടെ അനുമതി വേണമെന്ന് അതിനു വേണ്ട അനുമതി ലഭിക്കണമെങ്കിൽ ആദ്യമേ തന്നെ നോക്കുന്ന കാര്യം എത്ര മൃഗങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ആദ്യം എവിടെയാണ് നിങ്ങൾ അതിനെ പാർപ്പിക്കുന്നത് രണ്ടാമതായി അവിടെ എന്തെല്ലാം ഭക്ഷണവും വെള്ളവും വായുവും തുടങ്ങി എന്തെല്ലാം അവസ്ഥകളാണ് ഈ സൌകര്യങ്ങലാണ് നൽകുന്നതെന്നും അനുസരിച്ചിരിക്കും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം നിങ്ങൾ എങ്ങനെയാണ് ആണ് അവയെ ബലി നൽകുന്നത് എന്നതാണ് നിങ്ങൾ അവയെ കൊല്ലുകയും മറ്റ് ടിഷ്യു എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏതുതരം മോഡാണ് ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങൾ അവരെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് കൊല്ലാൻ പോവുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ സെർവിക്കൽ ഡിസ്ലോക്കേഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോഡ് ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്ക് മൃഗത്തെ ബലിയർപ്പിക്കാൻ വ്യത്യസ്ത വഴികളുണ്ട് ഈ വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു വർഷങ്ങളായി നിരവധി മെച്ചപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട് കൂടാതെ മൃഗവൈദ്യൻമാരോ ബന്ധപ്പെട്ടവരോ അറിയുന്നവരോ ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മൃഗങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സാങ്കേതികതയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ അനസ്തേഷ്യ നൽകാൻ ആഗ്രഹിച്ചു നിങ്ങൾ മൃഗത്തെ ബലിയർപ്പിക്കുന്നില്ല അതിന് ബദലായി ഒരു അനസ്തേഷ്യയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതായത് നിങ്ങൾക്ക് മൃഗത്തിൽ എന്തോ ഇമ്പ്ലാൻറ് ചെയ്യണം അതിനായി അവിടെ നിന്ന് മാറ്റേണ്ട ടിഷ്യുകളും നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള അനസ്തേഷ്യയാണ് പിന്തുടരാൻ പോകുന്നത് നിങ്ങൾ മൃഗവൈദൻ അല്ലെങ്കിൽ ഇത് അറിയുകയില്ല കാരണം ഈ അധിക വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഒരു കാരണവുമില്ല അതിനാൽ ഈ ഭാഗം വളരെ നിർണ്ണായകമാണ് നിങ്ങൾ ചെയ്യുന്നതെന്തും നിങ്ങൾ മൃഗസംരക്ഷണവുമായി വാഗ്ദാനം ചെയ്ത കാര്യങ്ങളുമായി പൊരുത്തപ്പെടണം എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വാഗ്ദാനം ചെയ്യരുത് നിങ്ങൾ സ്റ്റഫ് വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നത് അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഊഹിക്കാം നിങ്ങൾ ഒരു CO2 വഴി മൃഗങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു അതിനാൽ നിങ്ങൾക്ക് CO2 വിതരണം ആവശ്യമാണ് ലോകമെമ്പാടുമുള്ള മിക്ക ലാബുകളിലും അതുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു അറ ഉണ്ടായിരിക്കണം ഇതിലാണ് നിങ്ങൾ മൃഗത്തെ മൃഗത്തെ സൂക്ഷിക്കുന്നത് ഇതുപോലെ ഗ്യാസ് വിതരണം ചെയ്യണം ഒപ്പം മൃഗത്തെ സമാധാനപരമായ മരണത്തിന് അനുവദിക്കുകയും തുടർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വിച്ഛേദിക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ തല ശിരഛേദം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുടൽ ടിഷ്യു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേശികൾ നീക്കംചെയ്യാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിനെ ഒറ്റപ്പെടുത്താൻ കാർഡിയാക് ടിഷ്യു ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്തു അത് പിന്തുടരാം പക്ഷേ ഈ ഭാഗം വളരെ പ്രധാനമാണ് അതിനാൽ ഈ സൌകര്യത്തിനായി സിങ്കിനടുത്തുള്ള കോർണർ ഉപയോഗിക്കാം കാരണം ഇത് നിങ്ങൾ വളരെ വൃത്തിയായി ചെയ്യണം നിങ്ങൾ ഇവിടെ കാര്യങ്ങൾ അലങ്കോലപ്പെടുത്തരുത് അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം ഇതെല്ലാം നിങ്ങൾ പ്രൈമറി കൾച്ചർ ചെയ്യുന്നുവെന്ന് അനുമാനിച്ചാണ് പറയുന്നത് കാരണം ഇത് വ്യക്തമാണെങ്കിൽ സെക്കണ്ടറി കൾച്ചർ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം ഈ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നത് ലാബിനുള്ളിൽ പോലും ബാഹ്യ സൌകര്യങ്ങളിലാകണം നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഇവിടെ അല്ലെങ്കിൽ പുറത്തേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കരുത് അവർ പുറത്ത് മൃഗത്തെ ബലിയർപ്പിക്കുകയും ബലി മൃഗത്തെ അകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ഇത് ഗുണവും ദോഷവുമാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നു പോരായ്മ എന്തെന്നാൽ നിങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള എൻക്ലോസർ ആവശ്യമാണ് അത് കൂടുതൽ തുറന്നുകാട്ടപ്പെടുന്നു മാത്രമല്ല നിങ്ങളുടെ ലാബിന്റെ ബാഹ്യ സൌകര്യത്തിനുള്ളിൽ ഈ സ്റ്റഫ് ചെയ്യേണ്ടതില്ല എന്നതാണ് പോരായ്മ അതിനാൽ നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് ഞാൻ ഇത് വിടുന്നു എന്നാൽ അത്തരം ചില സൌകര്യങ്ങൾ ഉണ്ടായിരിക്കണം ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് പാഠപുസ്തകത്തിൽ എഴുതപെട്ടിട്ടില്ല ഞാൻ പറയുന്നത് ലാബുകളുടെ രൂപകൽപ്പനയും ലേഔട്ടും എങ്ങനെ ചെയ്യണമെന്നുള്ള എന്റെ അനുഭവത്തിൽ നിന്നാണ് അതിനപ്പുറം ഇപ്പോഴും ഓർക്കുന്നു 1997ൽ ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നോട് ഇത് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു പാഠപുസ്തകവും ഇല്ലായിരുന്നു അതിനാൽ ഇത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് നിങ്ങളുടെ www ഡോട്ട് കാലഘട്ടമായിരുന്നില്ല ഇന്റർനെറ്റും ഇല്ലായിരുന്നു ഇവയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നാൽ ഇവിടെയും അവിടെയും ഒരുപിടി പാഠപുസ്തകങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ മുഴുവൻ കാര്യങ്ങൾ എങ്ങനെ ശരിക്കും സജ്ജീകരിക്കുമെന്നും ശ്രേദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും അവ പറഞ്ഞിരുന്നില്ല അതിനാൽ അന്ന് ലാബ് സെറ്റ് ചെയ്യുന്നത് ഒരു പരീക്ഷണമായിരുന്നു പല ആളുകളോടും സംസാരിച്ചും പല ലാബുകൾ സന്ദർശിച്ചും ശെരിയും തെറ്റും കണ്ടെത്തണമായിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നതെന്തും എന്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു പാഠപുസ്തകവുമില്ല പക്ഷേ നിങ്ങൾ മുൻകൂട്ടി ചിന്തിക്കണം കാരണം നിങ്ങൾ മുൻകൂട്ടി ചിന്തിക്കുകയും നിങ്ങൾക്ക് ഞാൻ ഇവിടെ നൽകുന്നതിനേക്കാൾ നന്നായി കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാനാവുകയും ചെയ്യും നിങ്ങൾ ഇത് ശരിയായി ചിന്തിക്കുകയും വളരെ നല്ല ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയും ഇത് ഇവിടെ ഇടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും അവർക്ക് ശാസ്ത്രം അറിയുന്നില്ലായിരിക്കാം അത് ആവശ്യമില്ല പക്ഷേ അവർക്ക് ഈ മുഴുവൻ കാര്യങ്ങളും എങ്ങനെ രൂപകൽപന ചെയ്യണമെന്നുള്ള ഉൾകാഴ്ച നൽകാനാവും ഞാൻ നിങ്ങളോട് നമ്മൾ വിട്ടു പോകുന്ന അത്തരം റേറ്റ് തീരുമാനിക്കുന്ന പോയിന്റുകളാണ് പറയാൻ ശ്രമിക്കുന്നത് മിക്കപ്പോഴും വളരെ അലസമായി എടുത്തു ഒരു മോശം ഡിസൈൻ രൂപകൽപ്പന ചെയ്യപ്പെടാറുണ്ട് അതിനാൽ ഒരു ലാബ് സെറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഫെസിലിറ്റി വേണമെന്ന് സ്വസ്ഥമായി ചിന്തിക്കണം നിങ്ങളുടെ ഫെസിലിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഉപഭോക്താവ് അത് വന്നു കാണുമ്പോൾ അവർക്കാവശ്യമായതെല്ലാം അതിൽ ഉണ്ടാവണം നിങ്ങൾ നിങ്ങളുടെ ആത്മാവതിൽ അർപ്പിക്കണം അത്തരത്തിലുള്ള ഒരു സ്പിരിറ്റോട് കൂടി വേണം ഈ ഫെസിലിറ്റികൾ ഉപയോഗിക്കാൻ നിങ്ങളത് അലകോലമാക്കാൻ പാടില്ല കാരണം ഏതെങ്കിലും അശ്രദ്ധ ഉണ്ടായാൽ അത് മറ്റ് പലരുടെയും ജോലി നശിപ്പിക്കാം നിങ്ങൾ ജൈവ സാമ്പിളുകൾ കൈകാര്യം ചെയ്യുന്നു കണ്ടാമിനേഷന് സാധ്യത ഉള്ളതിനാൽ അവയ്ക്കതു നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാം അങ്ങനെ ഒരു മലിനീകരണം ഉണ്ടായാൽ അതിനെ തടയുക ബുദ്ധിമുട്ടാണ് അതിനാൽ നിങ്ങൾക്ക് മൃഗങ്ങളെ ബലിയർപ്പിക്കാനുള്ള സൌകര്യം ഉണ്ടായിരിക്കണം മാത്രമല്ല ഏത് ടിഷ്യുവിനേയും പുറത്തെടുക്കുകയും ഇവയെല്ലാം ഹുഡിൽ വെച്ച് ചെയ്യുകയും വേണം ഇപ്പോൾ നിങ്ങൾ ഹുഡിൽ ടിഷ്യു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബഫർ സിസ്റ്റം ഉണ്ടായിരിക്കണം ഈ ഭാഗം മീഡിയം വികസനത്തിൽ വരും നിങ്ങൾക്ക് ഒരു ബഫർ സിസ്റ്റം ഉണ്ടായിരിക്കണം അത് വിഭജനം നടക്കുന്ന സമയത്തു സെല്ലിനെ ജീവനോടെ വെയ്ക്കും മൃഗം എന്തായാലും ജീവനോടെയില്ല എന്നാൽ അവയ്ക്കു ആവശ്യമായ പോഷകങ്ങൾ നൽകണം ഒരുപക്ഷേ ടിഷ്യുവിന് ഓക്സിഡേറ്റീവ് നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ചിലതരം ആന്റിഓക്സിഡന്റുകളും മറ്റും ഇതിനെതിരെ നൽകേണ്ടിവരും മീഡിയത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുക്ക് ഈ ഭാഗത്തേക്ക് വരാം എന്നാലിത് മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് അതിനാൽ ഈ ലാമിനാർ ഫ്ലോ ഹൂഡിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സ്ഥിരമായ ഫിക്ചർ അല്ലെങ്കിൽ ഡിസ്സെറ്റിങ് മൈക്രോസ്കോപ്പ് വെയ്ക്കാൻ ഒരു സ്ഥിരമായ സ്ഥാനം വേണ്ടി വരും നിങ്ങൾക്ക് ഇത് പതിവായി ആവശ്യമായി വരും നിങ്ങൾ വലിയ മൃഗങ്ങളെ വിഭജിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമായി വരില്ല പക്ഷേ നിങ്ങൾ ഭ്രൂണങ്ങളോ മറ്റു സവിശേഷതകളോ വിഭജിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമായി വരും അതിനാൽ അതിലൂടെയുള്ള കാറ്റലോഗുകളിലൂടെ മൈക്രോസ്കോപ്പിനെക്കുറിച്ചും മികച്ച നിലവാരത്തിലുള്ള വിഘടിപ്പിക്കുന്ന മൈക്രോസ്കോപ്പിനെക്കുറിച്ചും കാണുക കാരണം ഈ വിഭജന പ്രക്രിയ പ്രത്യേകിച്ചും ഭ്രൂണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തന്ത്രപ്രധാനമായ പ്രക്രിയയാണ് അതിനായി ഒരു മോശം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ കണ്ണുകൾ നശിപ്പിക്കരുത് കാരണം ഇത് കഠിനമാണ് നിങ്ങൾക്ക് നല്ല മൈക്രോസ്കോപ്പ് കാഴ്ച ഇല്ലെങ്കിൽ ടിഷ്യു ശരിയായി കണ്ടെത്താൻ കഴിയില്ല സീസ് ഒളിമ്പസിന്റെ മൈക്രോസ്കോപ്പുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈകയെ ഉപയോഗിക്കാം അതിനാൽ ഈ മേഖലയിലെ ചില ഭീമന്മാർ ഇവരാണ് അല്ലെങ്കിൽ നിക്കോൺ ഒരു നല്ല മൈക്രോസ്കോപ്പ് ആണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ അതിൽ മികച്ച ആളാണെങ്കിൽ വളരെ നല്ല ഒരു അദ്ധ്യാപന സഹായി ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു ഈ ഡിസ്സെറ്റിങ് മൈക്രോസ്കോപ്പുകളിൽ പലതും ഒരു ക്യാമറ അറ്റാച്ചുമെൻറുമായി വരുന്നു അവയെ സ്ക്രീനിൽ സ്ഥാപിക്കുന്നതിനുള്ള സൌകര്യമുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് അത് റെക്കോർഡു ചെയ്യാനും കഴിയും അതിനാൽ നിങ്ങളുടെ ലാബ് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഉദാഹരണത്തിന് ഹിപ്പോകാമ്പൽ ന്യൂറോൺ പഠനത്തിലും മെമ്മറിയിലും ഉൾപ്പെട്ടിരിക്കുന്ന തലച്ചോറിന്റെ വളരെ സവിശേഷമായ ഭാഗമാണ് ഹിപ്പോകാമ്പസ് ഹിപ്പോകാമ്പൽ കൾച്ചറിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും സെൽ ലൈനുകളെ ആശ്രയിക്കാൻ കഴിയില്ല കൂടുതലും എലി അല്ലെങ്കിൽ എലികളുടെ ഭ്രൂണത്തിൽ നിന്ന് അവർ ഹിപ്പോകാമ്പസിനെ വേർതിരിക്കുന്നു ഇത് ഒരു സാധാരണ കാര്യമാണ് പ്രൈമറി സെൽ കൾച്ചറിലേക്ക് നിങ്ങൾ വന്നുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഇപ്പോൾ തലച്ചോറിൽ നിന്ന് ഹിപ്പോകാമ്പസ് വേർതിരിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല അതിനാൽ തലച്ചോറിന്റെ ഘടന ഇതുപോലെയാണ് അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ തലയോട്ടിയും എല്ലാം നീക്കം ചെയ്ത് തലച്ചോർ പുറത്തെടുക്കുന്നു നിങ്ങൾക്ക് തലച്ചോറിന്റെ ഡോർസൽ കാഴ്ചയോ അല്ലെങ്കിൽ മുകളിലെ കാഴ്ചയോ കാണാം അതിന്റെ അർത്ഥമെന്താണ് അതിനർത്ഥം ഈ മൃഗത്തെ ഇതുപോലെ ഇരിക്കുന്നതായി സങ്കൽപ്പിക്കുക നിങ്ങൾ മൃഗത്തെ മുകളിൽ നിന്ന് കാണുന്നു അതിനാൽ ഇപ്പോൾ അതിനെ ഡോർസൽ വ്യൂ എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് തലച്ചോറിന്റെ ഡോർസൽ വ്യൂവും വെൻട്രൽ വ്യൂവുമാണ് നമ്മൾ തലച്ചോറിനെ തലകീഴായി മാറ്റുകയോ മറ്റോ ചെയ്താൽ ഇതാണ് ഡോർസൽ വ്യൂ അതിനാൽ എന്റെ കൈകളുടെ ഈ ഭാഗം ഡോർസൽ കാഴ്ചയും ഇവ വെൻട്രൽ കാഴ്ചകളുമാണെങ്കിൽ നിങ്ങൾ അത് ഇതുപോലെ ചുരുട്ടിക്കളയുകയാണെങ്കിൽ തലച്ചോറിന്റെ വെൻട്രൽ കാഴ്ച ഇതുപോലെയാണ് ഇപ്പോൾ ഹിപ്പോകാമ്പസ് ഒരു അവയവമാണ് നിങ്ങൾ ഇത് ഇതുപോലെ മുറിച്ച് ഈ ഭാഗം നീക്കംചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് കാണാൻ കഴിയില്ല അതിനാൽ ഇതുപോലെ ഉള്ളിൽ ആഴത്തിൽ ഇരിക്കുന്ന അവയവമായിരിക്കും ഹിപ്പോകാമ്പസ്സ് നിങ്ങൾക്ക് മസ്തിഷ്ക ശരീരഘടനയിൽ സമഗ്രമായ അറിവില്ലെങ്കിൽ ഇത് ഒറ്റപ്പെടുത്തി വേർതിരിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല അതിനാൽ എന്തുകൊണ്ടാണ് ഞാൻ ഇത് പരാമർശിച്ചതെന്നാൽ ഉദാഹരണത്തിന് നിങ്ങളുടെ ലാബ് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അതിനാൽ ഹിപ്പോകാമ്പസിനെ ഒറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു വിദഗ്ദ്ധനായ ഒരാളുണ്ടെന്നു കരുതുക പക്ഷേ ഈ ആൾ ലാബിൽ നിന്ന് പുറത്തു പോകുന്നു അപ്പോൾ നിങ്ങൾ അവർ ഡിസ്ക്ട് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തു വെക്കണം അത് പിനീട് പ്രാക്ടിക്കലിന് ഒരു പഠന സഹായി ആയി ടിഷ്യുവിനെ എങ്ങനെ പുറത്തെടുക്കണം എന്ന് മനസിലാക്കാൻ സഹായിക്കും അതിനാൽ അറ്റാച്ചുമെന്റ് അല്ലെങ്കിൽ ക്യാമറയും വ്യൂവറും ഉള്ള ഒരു നല്ല ഡിസ്സെറ്റിങ് മൈക്രോസ്കോപ്പ് ഉണ്ടായിരിക്കുക എന്നത് നല്ലതാണ് കൂടാതെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ സ്ക്രീനും ഉപയോഗിച്ച് ക്യാമറ ഇന്റർഫേസ് അറിയാൻ കഴിയും നിങ്ങൾക്ക് ഇത് റെക്കോർഡു ചെയ്യാനും കഴിയും നിങ്ങൾക്ക് റെക്കോർഡു ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ഡിസക്ഷൻ കിട്ടുകയാണെങ്കിൽ അത് സെൽ കൾച്ചർ ഫെസിലിറ്റിക്ക് ഒരു ഉപകരണമാക്കാം ഇങ്ങനെയാണ് ഞങ്ങൾ ടിഷ്യുവിനെ വേർതിരിക്കുന്നത് അതിനാൽ ഒരു ഡിസ്സെറ്റിങ് മൈക്രോസ്കോപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധാപൂർവ്വം വാങ്ങണം ഞാൻ വ്യക്തിപരമായി സീസ് നിക്കോൺ ലൈക എന്നിവയാണുപയോഗിച്ചത് അതിനാൽ ഇവയൊക്കെയാണ് എന്റെ ശുപാർശ ഇതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ എന്റെ ആദ്യത്തെ നിർദ്ദേശം ഒരു നല്ല ഡിസ്സെറ്റിങ് മൈക്രോസ്കോപ്പ് നേടാൻ ശ്രമിക്കുക ഒരു ടേബിൾ ടോപ്പ് സ്റ്റെറിലൈസർ വേണം എന്താന്ന് ഒരു ടേബിൾ ടോപ്പ് സ്റ്റെറിലൈസർ ഡിസ്സെക്ഷനായി നിങ്ങൾക്ക് ഡിസ്സെക്ഷൻ ഉപകരണങ്ങൾ ആവശ്യമാണ് അതിനാൽ നിങ്ങളുടേത് ഒരു പ്രൈമറി കൾച്ചർ ലാബാനെങ്കിൽ ഇത്തരം തുടർച്ചയായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ശ്രദ്ധയോടെ സൂക്ഷിക്കുക അതിനാൽ അതിന്റെ മികച്ച നിലവാരം നേടാൻ ശ്രമിക്കുക ഫൈൻ സയൻസ് ടൂളുകൾ പോലെ മികച്ച ആഗോള കമ്പനികളുണ്ട് ഇത് സ്വിസ് കമ്പനിയാണ് ഈ തീയതി വരെ ഞാൻ ഉപയോഗിച്ച ഏറ്റവും മികച്ച ഉപകരണങ്ങളുടെ നിർമ്മാതാവാണ് അവർ നിങ്ങൾ അവ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവ താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അഥവാ നിങ്ങളുടെ ലാബ് അവ താങ്ങാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പ്രാദേശിക സ്വർണ്ണപ്പണിക്കാരനിലേക്ക് പോകാം അവർക്ക് ശരിക്കും ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ വാച്ച് മേക്കർമാർക്ക് ഉപകരണങ്ങൾ വളരെ നന്നായി ഉരുത്തിരിഞ്ഞെടുക്കാൻ കഴിയും എന്നാൽ ഇത് നിങ്ങളുടെ ആവശ്യകത എന്താണെന്നു അവരോടു പറയാൻ നിങ്ങൾ കൂടെ ഉണ്ടാവണം കാരണം നമ്മുടെ രാജ്യത്തെ വാച്ച് മേക്കറിൽ ഭൂരിഭാഗവും മികച്ച ടെർസെറ്റ് കത്രിക ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അവ ഉണ്ടാക്കിയെടുക്കാംഅതൊന്നും വലിയ പ്രശ്നമല്ല എന്നെ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധാരണ ഒന്ന് ഉണ്ടാക്കാം തുടർന്ന് നിങ്ങൾക്ക് അത് സ്വർണ്ണ പ്ലേറ്റ് ചെയ്യുകയോ ഇത് മൂർച്ചയുള്ളതാക്കുകയും തുടങ്ങി നിങ്ങൾക്ക് നിരവധി പുതുമയുള്ള നവീകരണത്തിന് സാധ്യതയുള്ള മേഖലയാണത് എന്നാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കണം അതിനാൽ മികച്ച ഗുണനിലവാരമുള്ള ഉപകരണം സംഘടിപ്പിക്കുക ഒപ്പം ഡിസെക്ഷൻ ഇൻസ്ട്രുമെന്റ് ബോക്സും ഉണ്ട് അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച മറ്റ് ലഞ്ച് ബോക്സുകളിൽ ഉള്ളത് പോലെ എന്നാൽ ഇവയുടെ അടിയിൽ പോളിമർ അല്ലെങ്കിൽ റബ്ബർപോലത്തെ ക്യൂഷൻ ഉണ്ട് അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ബോക്സ് കവർ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള റബ്ബർ ബെഡ് ഉണ്ട് ഈ റബ്ബർ ബെഡ് അവിടെയുള്ള ഉപകരണം അവിടെയുണ്ടെന്ന് ഉറപ്പാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഈ നേർത്ത ഫോർസെപ്സ് കത്രിക കാപ്സ്യൂളുകൾ എന്നിവ അറിയാം ഇവ കേടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു ബോക്സ് എടുത്ത് നേർത്ത റബ്ബർ ലൈനിങ് അതിനുള്ളിൽ വെക്കാം ഉപകരണത്തിന്റെ ടിപ്പ് വീണാലും ഒന്നും പറ്റരുത് ഇത് ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് പലപ്പോഴും അശ്രദ്ധ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത് മുൻകൂട്ടി കാണാനുള്ള ദീർഘ വീക്ഷണം വേണം ഡിസ്സെക്ഷന് മുൻപ് അണുനശീകരണം നടത്തണം അതിനായി ഓട്ടോക്ലേവ് വേണം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഓട്ടോക്ലേവ് ഉണ്ടായിരിക്കണം ഇപ്പോൾ ഈ ഓട്ടോക്ലേവ് ലാബിന് പുറത്തായിരിക്കാം ഓട്ടോക്ലേവ് ഒരു പ്രഷർ കുക്കർ പോലെയാണ് അവിടെ ഉയർന്ന ഈർപ്പം ഉയർന്ന മർദ്ദം എന്നിവയിൽ നിങ്ങൾ എന്തും അണുവിമുക്തമാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഓട്ടോക്ലേവുകൾ ആവശ്യമായി വരും കൂടാതെ ഈ ഓട്ടോക്ലേവുകൾ ആവശ്യകതകളോ അന്തിമ ഉപയോക്താക്കളുടെ എണ്ണമോ അനുസരിച്ചാണെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ വളരെ വലിയവ നേടണമെന്നില്ല ഇന്ന് ആധുനിക കേന്ദ്രീകൃത ഓട്ടോക്ലേവിംഗ് സൌകര്യങ്ങളുണ്ട് അതിനാൽ ഞാൻ വീണ്ടും ഡിസ്സെക്ഷനിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഈ ഓട്ടോക്ലേവിനെ കുറിച്ച് സംസാരിക്കട്ടെ അതിനാൽ ഓട്ടോക്ലേവുകൾ ഒന്നിലധികം തരങ്ങളാകാം നിങ്ങൾക്ക് ഇതുപോലുള്ള ഓട്ടോക്ലേവുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ ലാബുകളിലേതെങ്കിലും ഇടനാഴികളിൽ ഇരിക്കുന്ന ഈ വലിയ ഓട്ടോക്ലേവുകൾ പോലെ വലുപ്പമുള്ളവയുണ്ട് അവ നിങ്ങളുടെ മുൻവശത്തേക്ക് ഇതുപോലെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെ ഇവിടെ വൈദ്യുതി വിതരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നു ഒപ്പം മർദ്ദംഉറപ്പാക്കുന്നു കൂടാതെ ജലത്തിൽ നിന്ന് നീരാവി സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിനാൽ ഉയർന്ന സമ്മർദ്ദത്തിലും ബാഷ്പീകരിക്കപ്പെട്ട അന്തരീക്ഷത്തിലും നിങ്ങൾ സ്റ്റഫ് അണുവിമുക്തമാക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു അണുനശീകരണത്തിനായോ ഓട്ടോക്ലേവിംഗിനായോ എന്തെങ്കിലും സൂക്ഷിക്കുമ്പോഴെല്ലാം അവ ഒരു ഓട്ടോക്ലേവ് പൌച്ചുകളിൽ ഇടുക അവയുടെ പൌച്ചുകൾ ലഭ്യമാണ് കണ്ടിട്ടുള്ള കത്തുകൾ അയക്കുന്ന എൻവെലപ്പുകളെ പോലെ ഉള്ളവ നിങ്ങൾക്കവയെ അടച്ചു സീൽ ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾക്കറിയാവുന്ന എൻവലപ്പുകൾ പോലെയാണ് അവ അതിനാൽ ഒരു നിശ്ചിത ഘട്ട ചൂടിനും ഈർപ്പത്തിനും ശേഷം നിങ്ങൾ കാണുന്ന വസ്തുവിന്റെ നിറം മാറുന്നു ഇത് ഈ സ്റ്റഫ് ഓട്ടോക്ലേവ് ചെയ്തതായി സൂചിപ്പിക്കുന്നു ഓട്ടോക്ലേവ് ബാഗുകളുടെ വെബ്സൈറ്റുകൾ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓട്ടോക്ലേവ് ബാഗുകൾ കാണാൻ കഴിയും അവ വളരെ രസകരമായ കാര്യങ്ങളാണ് ഓൺലൈനിൽ പോയി പരിശോധിക്കുക അവ നിങ്ങൾ ആസ്വദിക്കും വ്യത്യസ്ത ശ്രേണിയിലുള്ള ഓട്ടോക്ലേവ് ബാഗുകൾ ലഭ്യമാണ് അതിനാൽ നിങ്ങൾ അണുവിമുക്തമാക്കാൻ ആഗ്രഹിക്കുന്നതെന്തും അവ ഇതിനകത്തു സൂക്ഷിക്കുക അവ വ്യത്യസ്ത വലുപ്പത്തിലും ആകൃതിയിലും വരുന്നു അതിനാൽ നിങ്ങളുടെ സൌകര്യത്തിനായി ഇതിനകം വാങ്ങിയ ചിലത് ഉണ്ടായിരിക്കാം ഒപ്പം നിങ്ങളുടെ സാധനങ്ങൾ അവയിൽ സൂക്ഷിക്കുകയും നിങ്ങൾ അത് പുറത്തെടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ ലാമിനാർ ഫ്ലോ ഹൂഡിൽ എത്തുന്നതുവരെ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ ഹുഡിന് സമീപം വരെ അത് തുറക്കുന്നില്ല അതിനാൽ ഈ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ചെയ്ത് നിങ്ങളുടെ ഫെസിലിറ്റിയുടെ ഉള്ളിൽ കൊണ്ടുവരിക ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് ഓട്ടോക്ലേവ് പുറത്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ ടോപ്പ് ഓട്ടോക്ലേവ് എവിടെയെങ്കിലും സൂക്ഷിക്കാം പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സൌകര്യത്തിനായി ഞാൻ വ്യക്തിപരമായി ഒരു ടേബിൾ ടോപ്പ് ഓട്ടോക്ലേവിനെയാണ് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത് പുറത്തല്ല ഇത് ആരെയും ശല്യപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് ഒരു ചെറിയ ടേബിൾ ടോപ്പ് ഓട്ടോക്ലേവ് ഉണ്ട് ഇവയെല്ലാം ലഭ്യമാണ് അവ നിങ്ങൾക്ക് ഒരു അടി വലുപ്പമോ മറ്റോ ഉള്ളത് ലഭിക്കും ഇതുപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കൂടുതൽ പ്രശ്നമുണ്ടാക്കില്ല അതിനാൽ സിങ്കിനോട് അടുത്ത് തന്നെ വേണം കാരണം നിങ്ങൾക്ക് വെള്ളവും മറ്റും നിറയ്ക്കണം അവർക്ക് ഒരു വൈദ്യുതി വിതരണം ആവശ്യമാണ് അതിനാൽ നിങ്ങൾ ഈ ഉപകരണം അകത്ത് കൊണ്ട് വരുന്നു നിങ്ങൾ ഡിസ്സെക്റ്റ് ചെയ്യുമ്പോൾ ഈ ലൈനുകൾ പുനഃസ്ഥാപിച്ചെങ്കിൽ എന്ന് തോന്നിയേക്കാം അതിനായി ഒരു ഡ്രൈ ടേബിൾ ടോപ് സ്റ്റെറിലൈസർ വേണം അങ്ങനെ കഴിയുമെങ്കിൽ ഒരു മൃഗത്തിൽ നിന്ന് രണ്ടാമത്തെ മൃഗത്തിലേക്ക് ഒരു ഭ്രൂണത്തിൽ നിന്ന് അടുത്ത ഭ്രൂണത്തിലേക്ക് പോകാം അതിനാൽ നിങ്ങൾക്ക് ഒരു ടേബിൾ ടോപ്പ് സ്റ്റെറിലൈസർ ആവശ്യമാണ് അവ ഇതുപോലുള്ള വാട്ടർ ഫീറ്റ് സ്റ്റഫ് പോലെയാണ് അവയിൽ ധാരാളം ഗ്ലാസ് മുത്തുകൾ പോലത്തെ ഘടനകൾ ഉണ്ട് ഇവയിൽ നിങ്ങൾ ഉപകരണങ്ങൾ സൂക്ഷിക്കുകയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പാനലും ഉണ്ട് അത് ഊർജ്ജ വിതരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ വരണ്ട അണുനശീകരണം 90 സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ എടുക്കും അതിനാൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അണുവിമുക്തമാക്കാം പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇവിടെയാണ് നിങ്ങൾക്ക് നനഞ്ഞ അണുനശീകരണം അഥവാ സ്റ്റെറിലൈസേഷൻ ഉള്ളത് ഇത് വളരെക്കാലത്തെ സ്റ്റഫ് ആണ് ഇവിടെ നിങ്ങൾക്ക് വരണ്ട അണുനശീകരണം ഉണ്ട് അവിടെ നിങ്ങൾ ചൂട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങൾ ഈർപ്പം അല്ലെങ്കിൽ മർദ്ദം ഉപയോഗപ്പെടുത്തുന്നില്ല അതിനാൽ ഉണങ്ങിയ അണുനശീകരണം സ്റ്റെറിലൈസേഷൻ അവിടെ ഇരിക്കുന്നു നിങ്ങളുടെ ഉണങ്ങിയ സ്റ്റെറിലൈസേർ അവിടെ സൂക്ഷിക്കുന്നത് കാണുക അതിനാൽ നിങ്ങൾ ഡിസ്സെക്റ്റ് ചെയ്യുമ്പോൾ 90 സെക്കൻഡിനുള്ളിൽ ഇത് വീണ്ടും അണുവിമുക്തമാക്കുമെന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അറിയാൻ കഴിയും എന്നിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും അതിനാൽ ഇവയിൽ ഒരു കൂട്ടം പൈപ്പറ്റുകളാണ് നിങ്ങൾക്ക് ഹൂഡുകൾക്കായി വേണ്ടത് സാധാരണയായി ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ആ ഗ്ലാസ് ചുമരുകളിൽ ഇരുവശത്തും പൈപ്പറ്റുകൾ ഇതുപോലെ എവിടെയെങ്കിലും സൂക്ഷിക്കാം കൂടാതെ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ അണുവിമുക്തമാക്കിയ പൈപ്പറ്റ് ടിപ്പുകൾ ഉണ്ട് അവ ഇതുപോലെ സൂക്ഷിക്കുന്നു ബെഞ്ചിൽ ഇരിക്കുന്ന പൈപ്പറ്റ് ടിപ്പ് സമയാസമയങ്ങളിൽ അണുവിമുക്തമാക്കണം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈപ്പറ്റ് ടിപ്പ് ബോക്സ് വീണ്ടും മാറ്റി പുതിയ പൈപ്പറ്റ് ടിപ്പ് ബോക്സ് പകരം വയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ ഇവ ഡിസ്സെക്റ്റിംഗ് മൈക്രോസ്കോപ്പിനുള്ളിൽ അല്ലെങ്കിൽ ലാമിനാർ ഹുഡിനുള്ളിൽ വേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളാണ് അതിനാൽ എന്തെല്ലാം വേണമെന്ന് ഒന്ന് ചുരുക്കി പറയാം ആദ്യം ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടായിരിക്കണം ഒരു ഡിസ്സെക്റ്റിംഗ് മൈക്രോസ്കോപ്പ് സാധ്യമെങ്കിൽ ക്യാമറയുമായി കണക്റ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ചില സിസിഡി CCD ഉപകരണങ്ങളുള്ള ഒരുമോണിറ്റർ രണ്ടാമതായിഡ്രൈ സ്റ്റെറിലൈസർ മൂന്നാമത് സമർപ്പിത പൈപ്പറ്റ് പൈപ്പറ്റ് ടിപ്പുകൾ pipette pipette tips അതിനാൽ ഇപ്പോൾ ഞങ്ങൾ അതിൽ ഒരു ഘടകം കൂടി ചേർത്തു ഔട്ടർ ലാമിനാർ ഫ്ലോ ഹുഡ് outer laminar flow hood അതിനാൽ ഓട്ടോക്ലേവ് ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് എന്റെ മുൻഗണന ഒരു ചെറിയ ടേബിൾ ടോപ്പിനുള്ളിൽ ഒരു ഓട്ടോക്ലേവ് ഉണ്ടായിരിക്കണം എന്നതാണ് നിങ്ങൾക്ക് ഈ ഇടനാഴിയുടെ വശത്തോ മറ്റെവിടെയെങ്കിലുമോ ഒരു വലിയ ഓട്ടോക്ലേവ് വെയ്ക്കാം എന്നാൽ ഇവിടെയുള്ള ഒരു ചെറിയ ഒരെണ്ണം ഒരിക്കലും മോശമായ ആശയമായിരിക്കില്ല നിങ്ങൾക്ക് വെള്ളത്തിനുള്ള സൌകര്യം വേണം അതിനാൽ ഇവിടെ നിന്ന് അടുത്ത ക്ലാസ്സിൽ ഈ സ്റ്റോറി നമ്മൾ കൂടുതൽ വികസിപ്പിക്കും ഈ സൌകര്യം മുഴുവനും എങ്ങനെ കാണപ്പെടും കാരണം ഞങ്ങൾ ഇപ്പോൾ പുറം പാളിയിൽ ആരംഭിച്ചതിനാൽ മറ്റ് ചില കാര്യങ്ങളുണ്ട് ഞാൻ ആന്തരിക അറയിലേക്കോ ആന്തരിക മുറിയിലേക്കോ പോകുന്നതിനുമുമ്പ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് മറ്റ് കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കും എന്നാണ് അതിനാൽ എല്ലാവർക്കും നന്ദി ഈ ലേഔട്ട് രൂപകൽപ്പനയുടെയും ഇൻസ്ട്രുമെന്റേഷന്റെയും വികസനത്തിനായി അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും തുടരും